ഈ പാഠത്തിൽ റെസിസ്റ്റീവ് നെറ്റ്വർക്കുകൾക്കായുള്ള റെസിപ്രോസിറ്റി തിയറം ഔപചാരികമായി തെളിയിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു അങ്ങനെ ചെയ്യുമ്പോൾ റെസിസ്റ്റീവ് നെറ്റ്വർക്കുകൾക്കായി മുമ്പ് കണ്ട മറ്റ് ചില പ്രോപ്പർട്ടികൾ നമ്മൾ ഓർക്കും ഇപ്പോൾ ആദ്യം ഞാൻ രണ്ട് തരത്തിലുള്ള രണ്ട് പോർട്ടുകൾ തമ്മിൽ വേർതിരിക്കട്ടെ ഇത് ഞാൻ മുമ്പ് വരച്ച ചിത്രമാണ് 1 1' ഉം 2 2'ഉം ഇപ്പോൾ രണ്ട് പോർട്ടുകളുടെ ഒരു ഉപഗണം ഈ രൂപത്തിലാകാം 1 2 ഉം ഈ 1' ഉം 2' ഉം യഥാർത്ഥത്തിൽ ഒരേ ടെർമിനലാണ് അതിനാൽ ഇത് സാധാരണ ടെർമിനലും ആണ് അതായത് പോർട്ട് 1 പോർട്ട് 2 ഉം കൂടാതെ ഒരു പൊതു ടെർമിനലും ആണ് ഇപ്പോൾ ഇത് കൂടുതൽ പൊതുവായ പ്രാതിനിധ്യമാണ് എന്നാൽ രണ്ട് പോർട്ട് നെറ്റ്വർക്കുകൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അതിനാൽ ആദ്യം ഞാൻ ഇത്തരത്തിലുള്ള രണ്ട് പോർട്ട് നെറ്റ്വർക്കുകൾ എടുക്കും പരസ്പരബന്ധം തെളിയിച്ച ശേഷം അത് അതിലേക്ക് നീട്ടും നമ്മൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ മറ്റേ കേസിന് ഇത് നിസ്സാരമായി മാറുന്നു നമ്മൾ ഇതിനകം പഠിച്ച തരത്തിലുള്ള സർക്യൂട്ട് വിശകലനം കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഇപ്പോൾ ഇത് 4 ടെർമിനൽ രണ്ട് പോർട്ട് എന്നും ഇത് 3 ടെർമിനൽ രണ്ട് പോർട്ട് എന്നും അറിയപ്പെടുന്നു ഇപ്പോൾ പരസ്പരബന്ധം തെളിയിക്കാൻ ഞാൻ ഈ ചിത്രം ഉപയോഗിക്കും അതിനാൽ 1 2 കോമൺ നോഡ് ഇതാണ് ആദ്യത്തെ പോർട്ട് ഇത് രണ്ടാമത്തെ പോർട്ട് രണ്ട് പോർട്ടുകളും കറന്റ് സ്രോതസ്സുകളായ I1 I2 എന്നിവയാൽ എക്സൈറ്റ് ആകുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഇത് രണ്ട് പോർട്ടുകളിനെയും z പാരാമീറ്റർ ചിത്രവുമായി യോജിക്കുന്നു ഇപ്പോൾ z പാരാമീറ്ററുകൾ ഉപയോഗിച്ച് നിങ്ങൾ പരസ്പരബന്ധം തെളിയിച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അതായത് മറ്റെല്ലാ പാരാമീറ്റർ സെറ്റുകൾക്കും അനുബന്ധമായ പരസ്പര ബന്ധങ്ങൾ ഉണ്ട് അതിനാൽ ഇത് പരസ്പരബന്ധിതമായ നെറ്റ്വർക്കാണ് അതിനാൽ ഏത് പാരാമീറ്ററിനും പരസ്പരബന്ധം തെളിയിക്കുന്നതിലൂടെ നിങ്ങൾക്ക് റെസിപ്രോസിറ്റി തെളിയിക്കാനാകും അതായത് നിങ്ങൾക്ക് z12 z21 അല്ലെങ്കിൽ y12 y21 അല്ലെങ്കിൽ h12 h21 അല്ലെങ്കിൽ g12 g21 തെളിയിക്കാൻ കഴിയും അവയിലേതെങ്കിലും ഉണ്ടേൽ അത് മറ്റുള്ളവയെ സൂചിപ്പിക്കുന്നു അതിനാൽ നമ്മൾ ഇതിൽ നിന്ന് ആരംഭിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നെറ്റ്വർക്കിൽ ഇപ്പോൾ റെസിസ്റ്ററുകൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതിനാൽ അത് പ്രധാനമാണ് ഇപ്പോൾ നിങ്ങൾ തെളിവിനായി നോഡൽ വിശകലനം പരീക്ഷിച്ച് നോക്കു ഞാൻ ഈ പൊതു നോഡ് റഫറൻസ് നോഡായി തിരഞ്ഞെടുക്കും അതിനാൽ പോർട്ട് 1 വോൾട്ടേജ് V1 ഈ നോഡിലെ വോൾട്ടേജും പോർട്ട് 2 വോൾട്ടേജ് V2 റഫറൻസ് നോഡുമായി ബന്ധപ്പെട്ട് ഈ മറ്റൊരു നോഡിലെ വോൾട്ടേജ് ആണ് അതിനാൽ ഇപ്പോൾ ഞാൻ ഇതിനുള്ള നോഡൽ വിശകലന സമവാക്യങ്ങൾ സജ്ജീകരിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ആകെ n 1 നോഡുകൾ ഉണ്ടെന്ന് പറയാം ഇപ്പോൾ ഞാൻ ഇത് ഇതുപോലെയാകാൻ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ എനിക്ക് n സമവാക്യങ്ങൾ ഉണ്ട് ഞാൻ റഫറൻസ് നോഡുകൾ ഒഴിവാക്കുന്നു എനിക്ക് n നോഡൽ സമവാക്യങ്ങൾ ഉണ്ട് ഇപ്പോൾ രണ്ട് പോർട്ടുകളുമായി ബന്ധപ്പെട്ട രണ്ട് നോഡുകൾ എടുക്കുക ഞാൻ അവയെ നോഡ് 1 നോഡ് 2 എന്ന് ലേബൽ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നു സർക്യൂട്ടിലെ ശേഷിക്കുന്ന നോഡുകൾ 2 മുതൽ n വരെ ലേബൽ ചെയ്തിരിക്കുന്നു കൂടാതെ സർക്യൂട്ട് I1 I2 എന്നിവയിൽ രണ്ട് സ്വതന്ത്ര സ്രോതസ്സുകൾ മാത്രമേയുള്ളൂ ഉള്ളിൽ നമുക്ക് റെസിസ്റ്ററുകൾ മാത്രമേയുള്ളൂ അതിനാൽ ഇപ്പോൾ വ്യക്തമായും ഇതിനുള്ള നോഡൽ വിശകലന സമവാക്യങ്ങൾ g മാട്രിക്സ് തവണ അജ്ഞാത വോൾട്ടേജ് വെക്റ്റർ സ്വതന്ത്ര സ്രോതസ്സു വെക്റ്ററിന് തുല്യമാണ് ഈ കേസിൽ കറന്റ് സ്രോതസ്സുകൾ മാത്രം അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് റെസിസ്റ്ററുകളും കറന്റ് സ്രോതസ്സുകളും മാത്രമുള്ളപ്പോൾ നോഡൽ വിശകലനം എളുപ്പമായിരുന്നു കൂടാതെ ചാലക മാട്രിക്സിന് ചില നല്ല ഗുണങ്ങളുണ്ടായിരുന്നുവെന്നും ഓർക്കുക അതിനാൽ നമുക്ക് റെസിസ്റ്ററുകളും സ്വതന്ത്ര കറന്റ് സ്രോതസ്സുകളും മാത്രമുള്ളപ്പോൾ ഈ ചാലക മാട്രിക്സ് സമമിതിയായിരുന്നു അതിനാൽ നമ്മൾക്ക് ഒരു സമമിതി ചാലക മാട്രിക്സ് ഉണ്ട് ഇപ്പോൾ ഇത് ഒരു വിപുലീകരിച്ച രൂപത്തിൽ എഴുതാം എനിക്ക് ഇവിടെ എന്റെ g മാട്രിക്സ് ഉണ്ട് എന്റെ വോൾട്ടേജ് വെക്റ്റർ V1 V2 ഉണ്ട് അത് രണ്ട് പോർട്ട് വോൾട്ടേജുകളുമായി പൊരുത്തപ്പെടുന്നു അതിനുശേഷം എനിക്ക് Vn ലേക്ക് V3 ഉണ്ട് ഓർക്കുക ഇത് n 1 നോഡ് സർക്യൂട്ട് ആണ് അതിനാൽ n നോഡ് വോൾട്ടേജുകളും n സ്വതന്ത്ര KCL സമവാക്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഇത് സോഴ്സ് വെക്ടറും സോഴ്സ് വെക്ടറിൽ നമുക്ക് ഉള്ളത് അടിസ്ഥാനപരമായി ഒരു പ്രത്യേക നോഡിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്ന സ്വതന്ത്ര കറന്റ് സ്രോതസ്സു മൂല്യമാണ് അതിനാൽ വ്യക്തമായി നോഡ് 1 ലേക്ക് നമ്മൾ I1 ഇൻജക്റ്റ് ചെയ്യുകയും നോഡ് 2 ലേക്ക് നമ്മൾ I2 ഇൻജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ ഇവിടെയുള്ള ബാക്കിയുള്ള എൻട്രികൾ 0 ആയിരിക്കും കാരണം നമുക്ക് സർക്യൂട്ടിൽ മറ്റ് സ്രോതസ്സുകളൊന്നുമില്ല ഇപ്പോൾ റെസിപ്രോസിറ്റി തെളിയിക്കാൻ എന്താണ് വേണ്ടത് ഞാൻ ഇത് പകർത്തട്ടെ ഈ നെറ്റ്വർക്കിന്റെ z പാരാമീറ്റർ വിവരണം z11 z12 z21 z22 തവണ I1 I2 V1 V2 ആയിരിക്കും അതിനാൽ നമുക്ക് ഇതിന്റെ ഭാഗങ്ങൾ ഇവിടെ കാണാം നമുക്ക് ഈ I1 ഉണ്ട് അവിടെ I2 അവിടെ V1 V2 എന്നിവയുണ്ട് നമുക്ക് ഈ അധിക വേരിയബിളുകളെല്ലാം ഉണ്ട് നെറ്റ്വർക്ക് പരസ്പരമുള്ളതാണോ എന്നറിയാൻ ഈ തരത്തിലുള്ള ബന്ധം ഇല്ലാതാക്കുകയും കൊണ്ടുവരികയും വേണം അത് ചെയ്യുന്നതിന് ഞാൻ ചെയ്യേണ്ടത് ഇനിപ്പറയുന്നതാണ് ഈ g മാട്രിക്സ് ഞാൻ നാല് ഭാഗങ്ങളായി വിഭജിക്കും അതിനാൽ ഇവിടെയാണ് ഞാൻ 2 വരികളും 2 കോളങ്ങളും എടുത്തത് അതിനാൽ ഇത് 1 ഉം 2 ഉം ആയ അക്കങ്ങൾ എഴുതട്ടെ തുടർന്ന് എനിക്ക് n ലേക്ക് 3 ഉണ്ട് അതുപോലെ 2 കോളങ്ങളും 1 ഉം 2 ഉം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ n ലേക്ക് 3 ഉണ്ട് ഇപ്പോൾ എനിക്ക് ഇതിൽ ഓരോന്നിലും അടിസ്ഥാനപരമായി നാല് സബ് മെട്രിക്സുകൾ ഉണ്ടാകും അതിനാൽ ആദ്യത്തെ രണ്ട് വരികളിലും ആദ്യത്തെ രണ്ട് കോളങ്ങളിലും പോകുന്നതെന്തും ഞാൻ ഇതിനെ gA എന്ന് വിളിക്കട്ടെ അതിനാൽ വ്യക്തമായി gA എന്നത് 2 ബൈ 2 സ്ക്വയർ മാട്രിക്സ് ആണ് ഇപ്പോൾ ഇവിടെ എനിക്ക് gB ഉണ്ടായിരിക്കും gB പൊതുവെ ഉയരമുള്ളതാണ് അതൊരു ചതുരാകൃതിയിലുള്ള മാട്രിക്സ് ആണ് ഇതിന് 2 വരികളും n 2 കോളങ്ങളും ഉണ്ട് ഈ ലൊക്കേഷനിൽ എനിക്ക് gC ഉണ്ടായിരിക്കും gC അതിന്റെ വീതിയേക്കാൾ ഉയരം ഉള്ളതായിരിക്കും അതിന് n 2 വരികളും 2 കോളങ്ങളും ഉണ്ടാകും ഇത് ഒരു ദീർഘചതുര മാട്രിക്സ് കൂടിയാണ് ഒടുവിൽ gD n 2 വരികളുടെയും n 2 നിരകളുടെയും ഒരു ചതുര മാട്രിക്സ് ആണ് നമുക്ക് റെസിസ്റ്ററുകളും സ്വതന്ത്ര കറന്റ് സ്രോതസ്സുകളും മാത്രമുള്ള ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ g മാട്രിക്സ് സമമിതിയാണെന്ന് നമുക്കറിയാം ഇപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് g മാട്രിക്സ് സമമിതി ആണെങ്കിൽ ഈ ഡയഗണലിന് മുകളിൽ നമുക്ക് സമമിതിയുണ്ട് അതിനാൽ അതായത് gA gD എന്നിവയും സമമിതി സ്ക്വയർ മെട്രിക്സുകളാണ് കാരണം G മാട്രിക്സ് സമമിതിയാണ് gC gD എന്നിവയും സമമിതി സ്ക്വയർ മെട്രിക്സുകളാണ് അതിനാൽ gA gD എന്നിവയും സമമിതിയാണ് കൂടാതെ ഈ g മാട്രിക്സ് സമമിതിയായതിനാൽ gBയും gCയും പരസ്പരം സ്വതന്ത്രമല്ല അതിനാൽ ഇവ രണ്ടും gB ട്രാൻസ്പോസിന് തുല്യമായതിനാൽ gC യുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണാൻ വളരെ എളുപ്പമാണ് അതിനാൽ ഈ മാട്രിക്സിന്റെ സമമിതി അർത്ഥമാക്കുന്നത gC എന്നത് gB യുടെ ട്രാൻസ്പോസ് ആയിരിക്കും എന്നാണ് അതിനാൽ നമുക്ക് മുന്നോട്ട് പോയി V1 V2 എന്നീ രണ്ട് വേരിയബിളുകൾ മാത്രം ഉൾപ്പെടുത്തി ഇത്തരത്തിലുള്ള ബന്ധം കൊണ്ടുവരാൻ ശ്രമിക്കാം ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ കാണുന്ന രണ്ട് വ്യത്യസ്ത വേരിയബിൾ വെക്ടറുകൾ ഉപയോഗിച്ച് ഇത് വേർപെടുത്തുക എന്നതാണോ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് gA തവണ V1 V2 gB തവണ V3 എന്ന് Vn വരെ എഴുതുന്നത് I1 I2 ന് തുല്യമായിരിക്കും അതിനാൽ അടിസ്ഥാനപരമായി ഞാൻ എഴുതിയത് ആദ്യത്തെ രണ്ട് സമവാക്യങ്ങളാണ് അതിനാൽ ആദ്യത്തെ രണ്ട് സമവാക്യങ്ങൾ അതായത് ആദ്യത്തെ രണ്ട് വരികൾ ഈ സമവാക്യവുമായി പൊരുത്തപ്പെടും കാരണം നമുക്ക് മാട്രിക്സിന്റെ ഈ ഭാഗം മാത്രമേ ചിത്രത്തിലേക്ക് വരുന്നുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ വ്യക്തിഗത എൻട്രികളുള്ള ചില മാട്രിക്സ് പരിഗണിക്കുകയും അത് എഴുതി നോക്കുകയും ചെയ്യാം അതിനാൽ gA അജ്ഞാത വെക്ടറിന്റെ ഈ ഭാഗത്തെ ഗുണിക്കുകയും gB അജ്ഞാത വെക്ടറിന്റെ ആ ഭാഗത്തെ ഗുണിക്കുകയും ചെയ്യും അതിനാൽ ഇവ ആദ്യ രണ്ട് വരികൾ അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് സമവാക്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളവയ്ക്ക് ഇത് എഴുതും കൂടാതെ gC എന്നത് gB ട്രാൻസ്പോസ് ആണെന്ന വസ്തുതയും ഞാൻ ഉപയോഗിക്കും അതിനാൽ gC ഈ വെക്ടറിനെ V1 V2 ഗുണിക്കുകയും gD ഈ അജ്ഞാത വെക്ടറിന്റെ ബാക്കി ഭാഗത്തേക്ക് ഗുണിക്കുകയും ചെയ്യും അതിനാൽ gB ട്രാൻസ്പോസ് വരുന്നത് V1 V2 gD തവണ V3 മുതൽ Vn വരെ എല്ലാ 0 കളുടെയും ഒരു വെക്ടറിന് തുല്യമായിരിക്കും ഇവയാണ് അവസാന n 2 നോഡൽ സമവാക്യങ്ങൾ ഇവിടെയും അവസാനത്തേയും ഉള്ള ആദ്യത്തെ രണ്ട് നോഡൽ സമവാക്യങ്ങൾ ആയ n 2 സമവാക്യങ്ങൾ ഇവിടെയുണ്ട് നോഡ് നമ്പറുകൾ തിരഞ്ഞെടുക്കുന്ന രീതി കാരണം ഈ ഭാഗത്ത് എല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളും ദൃശ്യമാകുന്നു ഇവിടെ ഒന്നുമില്ല നമ്മൾ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചത് ഈ അധിക അജ്ഞാത വേരിയബിളുകൾ V3 മുതൽ Vn വരെയുള്ള വെക്റ്റർ ആയിരുന്നു രണ്ടാമത്തെ സമവാക്യം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും ഇതിൽ നിന്ന് ഈ അജ്ഞാത വെക്ടറിനായി ഞാൻ പരിഹരിക്കുന്നു അതിനാൽ എനിക്ക് അധിക അജ്ഞാത വെക്റ്റർ V3 മുതൽ Vn വരെ ലഭിക്കും അത് gD ഇൻവേഴ്സ് gB ട്രാൻസ്പോസ് V1 V2 അതായത് ആവശ്യമുള്ള വെക്റ്റർ V1 V2 ന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ അജ്ഞാത വെക്റ്റർ ലഭിച്ചു ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ രണ്ട് സമവാക്യങ്ങളിലേക്ക് ഇത് മാറ്റിസ്ഥാപിക്കുക എന്നതാണ് അതിനാൽ അടിസ്ഥാനപരമായി എനിക്ക് ഇത് ഇവിടെ പകരം വയ്ക്കണം ഇവിടെ എനിക്ക് അധിക അജ്ഞാത വെക്റ്റർ ഉണ്ട് അതിനാൽ ഞാൻ അങ്ങനെ ചെയ്താൽ നമ്മൾ കണ്ട അജ്ഞാത വെക്ടറിന്റെ അധിക അജ്ഞാത വെക്ടറിന്റെ gA തവണകൾ എനിക്ക് ലഭിക്കും gD ഇൻവേഴ്സ് x gB ട്രാൻസ്പോസ് x V1 V2 ഉം ലഭിക്കും അത് മുഴുവനും I1 I2 നു തുല്യമായിരിക്കും ഇപ്പോൾ എനിക്ക് ഈ ബന്ധമുണ്ട് gA - gBgD gB ട്രാൻസ്പോസ് ഈ മുഴുവൻ കാര്യവും 2 ബൈ 2 സ്ക്വയർ മാട്രിക്സ് ആണ് gA 2 ബൈ 2 ആണ് gB ന് 2 വരികളും n 2 കോളങ്ങളും gD ന് n 2 വരികളും n 2 കോളങ്ങളും gB ട്രാൻസ്പോസിന് n 2 വരികളും 2 നിരകളും ഉണ്ട് അതിനാൽ ഒടുവിൽ ഈ വെക്റ്റർ V1 V2 I1 I2 എന്നതിന്റെ മുഴുവൻ നിങ്ങൾ 2 ബൈ 2 എന്നതിൽ അവസാനിച്ചു ഇപ്പോൾ ഇത് ഈ പ്രത്യേക സർക്യൂട്ടിനുള്ള ബന്ധമാണ് ഇത് ഇത് ഇതിനകം തന്നെ y മാട്രിക്സ് പാരാമീറ്ററുകളാണെന്ന് നിങ്ങൾ കാണുന്നു സർക്യൂട്ടിന്റെ മാട്രിക്സ് കാരണം y പരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് y മാട്രിക്സ് പദങ്ങൾ x V1 V2 I1 I2 ഉണ്ടായിരിക്കും നിങ്ങൾക്ക് z പാരാമീറ്റർ മാട്രിക്സ് വേണമെങ്കിൽ നമ്മൾ ഇത് വിപരീതമാക്കേണ്ടതുണ്ട് എന്നാൽ തീർച്ചയായും ഏറ്റവും പ്രധാനമായി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ മാട്രിക്സ് സമമിതിയാണ് y പാരാമീറ്റർ മാട്രിക്സ് സമമിതിയാണ് വ്യക്തമായും ഇൻവേഴ്സ് z പാരാമീറ്റർ മാട്രിക്സും സമമിതിയുള്ളതായിരിക്കും ഒന്നുകിൽ നമ്മൾ റെസിപ്രോസിറ്റി തെളിയിച്ചിട്ടുണ്ട് അതിനാൽ റെസിപ്രോസിറ്റി തെളിയിക്കാൻ y1 മുതൽ y21 വരെ അല്ലെങ്കിൽ z1 മുതൽ z21 വരെ തുല്യമാണ് അതായത് y പാരാമീറ്റർ ഒരു സമമിതിയോ z പാരാമീറ്റർ മാട്രിക്സ് സമമിതിയോ ആണെന്ന് തെളിയിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് ഈ g മാട്രിക്സിന്റെ സമമിതിയിൽ നിന്ന് വരുന്ന ഈ gA ഇത് സമമിതിയാണെന്ന് നോക്കാം ഇപ്പോൾ ഈ ഭാഗത്തെക്കുറിച്ച് എന്ത് പറയുന്നു ഒരു മാട്രിക്സ് സമമിതിയാണെന്ന് എങ്ങനെ തെളിയിക്കും അതിന്റെ ട്രാൻസ്പോസ് ആ മാട്രിക്സ് തന്നെ അങ്ങനെ പരീക്ഷിക്കും അതിനാൽ ഈ gB gD ഇൻവേഴ്സ് gB ട്രാൻസ്പോസ് അല്ലെങ്കിൽ ആ മാട്രിക്സ് പറയൂ നമ്മൾ അത് ട്രാൻസ്പോസ് ചെയ്യട്ടെ മെട്രിക്സുകളുടെ ഗുണനം ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തിഗത മെട്രിക്സിന്റെ ട്രാൻസ്പോസിന്റെ ഗുണനം ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ വിപരീത ക്രമത്തിലാണ് അതിനാൽ ആദ്യം നമുക്ക് ഈ 1 gB ട്രാൻസ്പോസ് ലഭിക്കും അടുത്തതിന്റെ ട്രാൻസ്പോസിന് അത് ലഭിക്കും അത് gD ഇൻവേഴ്സും അതിന്റെ ട്രാൻസ്പോസും ഒടുവിൽ gB ട്രാൻസ്പോസും ആയിരിക്കും വ്യക്തമായി ഇത് gB ട്രാൻസ്പോസ് ചെയ്ത് വീണ്ടും ട്രാൻസ്പോസ് ചെയ്യും അതിനാൽ അത് gB ന് തുല്യമാണ് ഇപ്പോൾ ഈ gD തന്നെ ഒരു സമമിതി ചതുര മാട്രിക്സ് ആണ് അതിനാൽ ഇതിൻറെ ഇൻവേഴ്സ്വും സമമിതി ആയിരിക്കും അതിനാൽ ഞാൻ gD ഇൻവേഴ്സ് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് അത് തന്നെ ലഭിക്കും കാരണം gD ഇൻവേഴ്സ്വും സമമിതിയാണ് ഒടുവിൽ എനിക്ക് gB ട്രാൻസ്പോസ് ഉണ്ട് അതിനാൽ ഇതിന്റെ ട്രാൻസ്പോസ് കൃത്യമായി മാട്രിക്സ് തന്നെയാണ് കാരണം അത് ഞാൻ gB തവണ gD ഇൻവേഴ്സ് gD ട്രാൻസ്പോസ് ഉപയോഗിച്ച് ആരംഭിച്ച മാട്രിക്സ് ആണ് അതിനാൽ ഇതും സമമിതിയാണ് ഇപ്പോൾ നമുക്ക് രണ്ട് സമമിതി മെട്രിക്സുകൾ തമ്മിലുള്ള തുകയോ വ്യത്യാസമോ ഉണ്ട് അതും ഒരു സമമിതി ആണ് അതിനാൽ ഈ മുഴുവൻ കാര്യവും ഇവിടെ നമ്മൾ തെളിയിച്ചു അതിനാൽ അത് സമമിതിയാണ് അത് ഒന്നുമല്ല നമ്മുടെ സർക്യൂട്ടിന്റെ y മാട്രിക്സ് ആണ് അതിനാൽ അത് സമമിതിയാണ് അതായത് രണ്ട് പോർട്ട് നെറ്റ്വർക്ക് പരസ്പരവിരുദ്ധമാണ് അതിനാൽ നിഗമനം y മാട്രിക്സ് സമമിതിയാണ് അതായത് y12 y21 അതിനാൽ ഇത് പരസ്പരവും y12 y21 ന് തുല്യമായതിനാൽ z12 എന്നത് z21 അല്ലെങ്കിൽ h12 എന്നത് h21ന് തുല്യമാണ് എന്നാണ് അല്ലെങ്കിൽ g12 എന്നത് g21 ന് തുല്യമാണ് അതിനാൽ ഇതെല്ലാം സ്വയമേവ ആ 1 ൽ നിന്നാണ് വരുന്നത് അതിനാൽ നോഡൽ വിശകലനത്തിൽ ദൃശ്യമാകുന്ന ചാലക മാട്രിക്സിന്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ അറിവ് ഉപയോഗിച്ച് ഒരു റെസിസ്റ്റീവ് രണ്ട് പോർട്ട് നെറ്റ്വർക്ക് തീർച്ചയായും പരസ്പരവിരുദ്ധമാണെന്ന് തെളിയിക്കാൻ നമ്മൾക്ക് കഴിയും നമ്മൾ രണ്ട് പോർട്ട് നെറ്റ്വർക്കുകളെ നിയന്ത്രിച്ചിരിക്കുന്നു നമ്മൾ മൂന്ന് ടെർമിനൽ രണ്ട് പോർട്ട് നെറ്റ്വർക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാൽ അത് വളരെ ലളിതമായ രീതിയിൽ നാല് ടെർമിനൽ രണ്ട് പോർട്ട് നെറ്റ്വർക്കുകളുള്ള അനിയന്ത്രിതമായ മൂന്ന് പോർട്ട് നെറ്റ്വർക്കിലേക്ക് സാമാന്യവൽക്കരിക്കാൻ കഴിയും